ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം അവസാന മൊഡ്യൂളിൽ ഒരു മോസ്ഫെറ്റിനായി പ്രോസസ്സ് ഫ്ലോ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് നമ്മൾ കണ്ടു നിങ്ങൾ ആ പ്രഭാഷണം കണ്ടുവെന്നും നിങ്ങൾക്ക് ഒരു മോസ്ഫെറ്റ് നൽകിയാൽ ഇപ്പോൾ ഒരു അടിസ്ഥാന ആശയം ഉണ്ടെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ മോസ്ഫെറ്റ് കെട്ടിച്ചമയ്ക്കുന്നതിനുള്ള പ്രോസസ് ഫ്ലോ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ കെട്ടിച്ചമയ്ക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞത് പ്രോസസ്സ് ചെയ്യാനോ കഴിയും മുമ്പത്തെ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ നിരവധി ഉപകരണങ്ങൾക്കായി പ്രോസസ് ഫ്ലോ രൂപകൽപ്പന ചെയ്യാൻ കഴിയും അത് ഒരു ബസ് സെൻസർ ആകാം ഒരു മൈക്രോ ഹീറ്ററാകാൻ ആകാം ഒരു ഗ്യാസ് സെൻസറാകാം അതിനാൽ പ്രോസസ് ഫ്ലോ യും പ്രത്യേക പ്രോസസ് ഫ്ലോ യ്ക്കുള്ള രീതികളും പഠിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് ഒരു മോസ്ഫെറ്റിന്റെ സവിശേഷതകൾ എങ്ങനെ മനസിലാക്കാൻ കഴിയും കൂടാതെ നമ്മൾ മോസ്ഫെറ്റിന്റെ ഒരു കറൻറ് മിറർ പ്രയോഗിക്കാൻ കഴിയും എന്ന് നോക്കാം തിനാൽ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക ഈ സ്കീമാറ്റിക് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഒരു എൻ ചാനൽ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റിൻറെ ഘടനയാണ് നിങ്ങൾ കാണുന്നത് പി ടൈപ്പ് സബ്സ്ട്രേറ്റായതിനാൽ നമുക്ക് ഇതിനകം തന്നെ ഇത് ഒരു എൻ ചാനൽ എൻഹാൻസ്മെൻറ് തരം ഘടന ആണെന്ന് മനസ്സിലാകും ഇത് സോഴ്സ് ആണ് ഇത് ഡ്രെയിൻ ആണ് ഇത് ഇതുപോലെയാകാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആകാം നിങ്ങൾക്ക് തിരിച്ചും വിചാരിക്കാം അത് പ്രശ്നമുള്ള കാര്യമല്ല ഇതിന് സോഴ്സും ഡ്രെയിനും ഗേറ്റും ഉണ്ട് തുടർന്ന് ഈ മോസ്ഫെറ്റ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കണം അതിനാൽ ഇനി നമുക്ക് മോസ്ഫെറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം മനസിലാക്കാം എന്താണ് സജീവമായ ഉപകരണങ്ങൾ സജീവമായ ഉപകരണങ്ങൾക്ക് ഇലക്ട്രോണുകളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതുപോലെതന്നെ കറണ്ട്ൻറ ഒഴുകും നിലവിലുള്ള ഉദാഹരണങ്ങളാണ് ബിജെടി ജെഫെറ്റ് മോസ്ഫെറ്റ് ഇവയെല്ലാം സജീവ ഉപകരണങ്ങളാണ് നിഷ്ക്രിയ ഉപകരണങ്ങൾക്ക് വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഇവ ഡയോഡ് കപ്പാസിറ്റർ എന്നിവയാണ് അതിനാൽ നമ്മൾ മോസ്ഫെറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് നിഷ്ക്രിയ ഉപകരണങ്ങളുടെ ഉദാഹരണങ്ങളാണ് സാധാരണയായി മോസ്ഫെറ്റിനെ 2 തരങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് നമ്മുടെ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ് മറ്റൊന്ന് നമ്മുടെ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റ് ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പി ചാനൽ ഡിപ്ലിഷൻ തരവും ഉണ്ട് എൻ ചാനൽ ഡിപ്ലിഷൻ തരവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ എൻ ചാനൽ എൻഹാൻസ്മെൻറ് തരം ഉണ്ട് പി ചാനൽ മെച്ചപ്പെടുത്തൽ തരം ഉണ്ട് ഇപ്പോൾ നമ്മൾ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചാനൽ തുടക്കത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഴ്സും ഡ്രെയിനും തമ്മിൽ ഒരു ചാനലും ഇല്ല ഈ ഘടന നമ്മൾ കണ്ടതാണ് ഈ ഘടനയിൽ ഒരു ചാനലൊന്നുമില്ല അതിനാൽ ഇത് നമ്മുടെ എൻഹാൻസ്മെൻറ് തരം MOSFET ആണ് ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ ഒരു ചാനൽ നിലവിലുണ്ടെങ്കിൽ അത് ഒരു ഡിപ്ലിഷൻ തരം MOSFET ആണ് അതിനാൽ തുടക്കം മുതൽ തന്നെ ഗേറ്റിൽ നിന്നും സോഴ്സിലേക്ക് വോൾട്ടേജ് പ്രയോഗിക്കാതെ ഡ്രെയിനിൽ നിന്നും സോഴ്സിലേക്ക് വോൾട്ടേജ് പ്രയോഗിക്കാതെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡിപ്ലിഷൻ തരം MOSFET ആണ് ചാനലില്ലെങ്കിൽ അത് നമ്മുടെ എൻഹാൻസ്മെൻറ് തരം MOSFET ആണ് ഇത് എപ്പോഴും ഓർക്കുക ഇനി ആ ചിഹ്നങ്ങൾ നോക്കുക ഈ ചിഹ്നം ഡിപ്ലിഷൻ തരം എൻ ചാനൽ MOSFET ആണ് അടുത്തത് ഡിപ്ലിഷൻ തരം പി ചാനൽ MOSFET ആണ് അടുത്തത് എൻഹാൻസ്മെൻറ് തരം എൻ ചാനൽ MOSFET ആണ് അതിൻറെ അടുത്ത് എൻഹാൻസ്മെൻറ് തരം പി ചാനൽ MOSFET ആണ് ഇപ്പോൾ ഇവിടെ അടിസ്ഥാന വ്യത്യാസം എന്തെന്നാൽ സോഴ്സും ഡ്രെയിനും ഗേറ്റും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് ഒരു ചാനൽ ഇല്ലെന്നാണ് ഇതിനർത്ഥം എൻഹാൻസ്മെൻറ് തരം ആണെങ്കിൽ ചാനൽ ഇല്ല ഡിപ്ലിഷൻ തരം ആണെങ്കിൽ ചാനൽ ഉണ്ട് അതിനാൽ എൻഹാൻസ്മെൻറ് തരമാണോ അല്ലെങ്കിൽ ഡിപ്ലിഷൻ തരമാണോ എന്ന് മനസിലാക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്തെന്നാൽ ചിഹ്നം ട്രാൻസിസ്റ്ററിൻറെ നൽകുമ്പോൾ ഡ്രെയിനും സോഴ്സും ഗേറ്റും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് എൻഹാൻസ്മെൻറ് തരം MOSFET ആണ് അല്ലെങ്കിൽ ഡിപ്ലിഷൻ തരം MOSFET ആണ് ഉറവിടവും ചോർച്ചയും ഈ പ്രത്യേക രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ കഴിയും അത് നമ്മുടെ ഡിപ്ലിഷൻ തരമായി മാറുന്നു കാരണം ചാനൽ നിലവിലുണ്ട് ഇത് എൻഹാൻസ്മെൻറ് തരത്തിൽ അഭാവമാണ് ഇത് മോസ്ഫെറ്റിന്റെ തരം മനസിലാക്കുന്നതിനോ തിരിച്ചറിയുന്നതിനോ ഉള്ള മറ്റൊരു മാർഗമാണ് ഇപ്പോൾ സബ്സ്ട്രേറ്റ് പി ടൈപ്പ് ആണെന്നും ഞാൻ ഡിഫ്യൂസ് ചെയ്യുകയാണെങ്കിലോ പി ചാനലിലേക്ക് എൻ ചാനൽ ഡോപ്പ് ചെയ്യുകയാണെങ്കിലോ ഇത് എന്റെ സോഴ്സും ഡ്രെയിനും ആയി മാറുന്നു സ്ലൈഡിലെ സ്കീമമാറ്റിക്സിൽ നിന്ന് നമുക്ക് കാണാനാകുന്നതുപോലെ അപചയ മേഖല സൃഷ്ടിക്കപ്പെടും ബേസിനായി ഒരു കണക്ഷനുണ്ട് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിമായി കണക്റ്റുചെയ്തിരിക്കുന്നു ഡ്രെയിനിനായുള്ള കണക്ഷൻ ഇവിടെ കാണാം സോഴ്സിനായുള്ള കണക്ഷൻ ഇവിടെ കാണാം ഇപ്പോൾ ഈ സബ്സ്ട്രേറ്റ് പി ടൈപ്പ് സോഴ്സും ഡ്രെയിനും N ടൈപ്പ്മാണ് അപ്പോൾ ഈ n ചാനലും സബ്സ്ട്രേറ്റും n ടൈപ്പ് സോഴ്സും ഡ്രെയിനും പി തരവുമാണ് എന്റെ സിലിക്കൺ സബ്സ്ട്രേറ്റ് പി തരം ആണെങ്കിൽ എന്റെ ഉറവിടവും ഡ്രെയിനും ഇവ രണ്ടും N ടൈപ്പ് ആണെങ്കിൽ എന്റെ ചാനൽ N ടൈപ്പ് ആണെന്ന് നമുക്ക് പറയാം മറിച്ച് എന്റെ സബ്സ്ട്രേറ്റ് N ടൈപ്പ് ആണെങ്കിൽ സോഴ്സും ഡ്രെയിനും പി ടൈപ്പ് ആണെന്ന് നമുക്ക് പറയാം അത് മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് അത് അതിനാൽ ഞാൻ സംസാരിക്കുന്ന N തരവും P തരവും സബ്സ്ട്രേറ്റിനെക്കുറിച്ചാണ് മോസ്ഫെറ്റിനെക്കുറിച്ചല്ല ഞാൻ എൻഹാൻസ്മെൻറ് തരം MOSFET നെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻഹാൻസ്മെൻറ് തരം MOSFET എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് ഇതാണ് സബ്സ്റേറ്റ് P തരം ആണ് അതിനർത്ഥം ഭൂരിപക്ഷം കാരിയറുകളാണ് കോളുകൾ ന്യൂനപക്ഷ കാരിയറുകളാണ് ഇലക്ട്രോണുകൾ മൊബൈൽ ചാർജ് കാരിയറുകൾ മൊബൈൽ അല്ലാത്ത കാരിയറുകൾക്ക് തുല്യമാണ് അതിനാലാണ് ചാർജ് നിഷ്പക്ഷത നിലനിർത്തുന്നത് ഇപ്പോൾ മൊബൈൽ ചാർജ് കാരിയർ മൊബൈൽ അയോണുകൾക്ക് തുല്യമാണ് അതിനർത്ഥം ഞങ്ങളുടെ ചാർജ് നിഷ്പക്ഷത ശരിയായി നിലനിർത്തും ഇപ്പോൾ നിങ്ങൾക്ക് ഉറവിടമുണ്ട് നിങ്ങൾക്ക് ഉറവിടത്തിനായി കണക്ഷനുണ്ട് ഡ്രെയിനിനായി നിങ്ങൾക്ക് കണക്ഷനുണ്ട് നമ്മുടെ അടിത്തറയിലേക്കോ സബ്സ്ട്രേറ്റിലേക്കോ കണക്ഷനുള്ള ഒരു ഗേറ്റിലേക്ക് കണക്ഷനുണ്ട് കൂടാതെ ഗേറ്റ് ഓക്സൈഡ് 100 നാനോമീറ്റർ 1000 ആംഗ്സ്ട്രോം മാത്രമാണ് അതായത് ഇവിടെ ഗേറ്റ് ഓക്സൈഡ് വളരെ നേർത്തതാണ് ഇത് നമ്മുടെ എൻഹാൻസ്മെൻറ് മോസ്ഫെറ്റാണ് കാരണം നമ്മുടെ ഉറവിടത്തിനും ചാനലിനും ഇടയിൽ ഒരു ചാനലും ഇല്ല അതിനാൽ അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതെല്ലാം ഒരേ കാര്യമാണ് എൻഹാൻസ്മെൻറ് തരം ട്രാൻസിസ്റ്ററുകൾ എന്താണ് എൻഹാൻസ്മെൻറ് തരം ട്രാൻസിസ്റ്ററുകൾ എങ്ങനെ കാണപ്പെടുന്നു ഡിപ്ലിഷൻ തരം ട്രാൻസിസ്റ്ററുകൾ എങ്ങനെ കാണപ്പെടുന്നു എൻഹാൻസ്മെൻറ് തരം പി മോസ് ട്രാൻസിസ്റ്റർ എങ്ങനെ കാണപ്പെടുന്നു ഡിപ്ലിഷൻ തരം പി മോസ് ട്രാൻസിസ്റ്റർ എങ്ങനെ കാണപ്പെടുന്നു പിന്നീട് പൂരക മെറ്റൽ ഓക്സൈഡ് അർദ്ധചാലകവും നമ്മൾ കാണും അതിനാൽ ആദ്യം നമുക്ക് എൻഹാൻസ്മെൻറ് തരം N മോസ് ട്രാൻസിസ്റ്ററിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഈ പ്രത്യേക സ്കീമാറ്റിക് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു സബ്സ്റേറ്റ് ഉണ്ടെന്നും വേഫറിന്റെ തരം P ആണെന്നും ഇത് കാണിക്കുന്നു അതിൽ നിങ്ങൾ n ചാനൽ ഡ്രെയിനും സോഴ്സും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് ഒരു ഗേറ്റ് ഓക്സൈഡ് കൊണ്ട് വേർതിരിച്ച് ഗേറ്റ് ഒരു ലോഹമാണ് അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ ഒരു ലോഹമുണ്ട് ഈ പ്രദേശത്ത് ചാലകമുണ്ട് ഇത് നമ്മുടെ ഓക്സൈഡ് ആണ് അതിനർത്ഥം നിങ്ങൾക്ക് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് വേർതിരിച്ച 2 ചാലക പ്ലേറ്റുകളുണ്ടെന്ന് തോന്നുന്നു ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മുടെ സിലിക്കൺ ഡൈ ഓക്സൈഡാണ് ഈ പ്രത്യേക രൂപം നമ്മൾ കാണുമ്പോൾ ഇത് കാണപ്പെടുന്നു നിങ്ങൾ ഗേറ്റ് ശരിയായി കാണുകയും ചെയ്യുന്നു ഈ ഓക്സൈഡ് കണ്ടാൽ ഒരു ഡൈലെക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ച് വേർതിരിച്ച 2 ചാലക പ്ലേറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു അതിനാൽ നിങ്ങൾക്ക് 2 ചാലക പ്ലേറ്റ് ഡൈലെക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ച് വേർതിരിക്കുമ്പോൾ അത് നമ്മുടെ കപ്പാസിറ്ററായി മാറുന്നു അതാണ് ഒരു കപ്പാസിറ്ററിന്റെ നിർവചനം അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ VGS പ്രയോഗിച്ചാൽ ചാർജ് കാരിയറുകളെ നിങ്ങൾ കാണും ഇതിനർത്ഥം ഗേറ്റ് പോസിറ്റീവ് ഉറവിടം നെഗറ്റീവ് ആണ് ഈ സാഹചര്യത്തിൽ എന്റെ ഗേറ്റ് പോസിറ്റീവ് ആയിരിക്കും ഉറവിടം നെഗറ്റീവ് ആയിരിക്കും ഞാൻ ഇത് ഉറവിടവുമായി ബന്ധിപ്പിക്കുന്നു വീണ്ടും ഇത് ഇവിടെ എഴുതട്ടെ അതിനാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും എന്റെ ഉറവിടം നെഗറ്റീവ് ഗേറ്റ് പോസിറ്റീവ് ആണ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ സോഴ്സ് ടു ഗേറ്റ് വോൾട്ടേജ് പ്രയോഗിക്കുന്നു ഞാൻ എന്റെ സബ്സ്ട്രേറ്റിനെ ഉറവിടവുമായി ബന്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത് ഒരു കണക്ഷനായിരിക്കും അതിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയും പക്ഷേ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ വരുന്നു കാരണം ഞാൻ പോസിറ്റീവ് ചാർജ് പ്രയോഗിക്കുമ്പോൾ ഇവിടെ പി തരത്തിൽ നിന്നുള്ള ന്യൂനപക്ഷ ചാർജുകൾ ആയ ഇലക്ട്രോണുകൾ ഗേറ്റിലേക്ക് വരുന്നു ഇത് ഗേറ്റിലേക്ക് ആകർഷിക്കപ്പെടും കാരണം ഗേറ്റ് പോസിറ്റീവ് വോൾട്ടേജാണ് അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജുകൾ ഇതുപോലെയാകുകയും ചാനലിന്റെ രൂപീകരണം നടക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഒരു ചോദ്യമുണ്ട് സബ്സ്റേറ്റ് യിൽ നെഗറ്റീവ് ചാർജുകൾ എങ്ങനെയാണ് അടിഞ്ഞുകൂടുന്നത് ഇത് ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു VGS വർദ്ധിക്കുമ്പോൾ നെഗറ്റീവ് മൊബൈൽ അയോണുകൾ ഗേറ്റിലേക്ക് അടിഞ്ഞു കൂടാൻ തുടങ്ങും ഈ സാഹചര്യത്തിൽ തുടക്കത്തിൽ ഇലക്ട്രോണുകൾ ഓക്സൈഡിനടുത്ത് അടിഞ്ഞു കൂടുന്നു നമ്മുടെ VGS വർദ്ധിക്കുമ്പോൾ ഓക്സൈഡിനടുത്ത് ഇലക്ട്രോണുകൾ അടിഞ്ഞുകൂടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഉറവിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഗേറ്റ് പോസിറ്റീവ് ആണ് അങ്ങനെ നെഗറ്റീവ് മൊബൈൽ അയോണുകൾ ഗേറ്റിലേക്ക് അടിഞ്ഞു കൂടാൻ തുടങ്ങും ഇവ നമ്മുടെ ന്യൂനപക്ഷ ചാർജ് കാരിയറുകളാണ് ഇപ്പോൾ നമ്മൾ VGS വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചാനലിനെ രൂപപ്പെടുത്തുന്ന നെഗറ്റീവ് മൊബൈൽ അയോണുകൾ കണ്ടെത്തുന്നതിന് കാരണമാകുന്നു അവസാനമായി ഞാൻ VGS വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചാനലിനെ രൂപപ്പെടുത്തുന്നു തുടർന്ന് ഇവിടെ ധാരാളം ഇലക്ട്രോണുകൾ ശേഖരിക്കപ്പെടും തുടർന്ന് ഇത് എന്റെ ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ ഒരു ചാനലായി മാറും കൂടാതെ ചാനൽ എന്ന് വിളിക്കുന്നതിന്റെ രൂപവത്കരണവും ഉണ്ടായിരിക്കും VGS വർദ്ധിപ്പിക്കുന്നതിലൂടെ ചാനൽ രൂപപ്പെടുമ്പോൾ ഈ പ്രക്രിയയെ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നു നാമെല്ലാവരും ഇത് പഠിച്ചു ഇനി നമുക്ക് കൂടുതൽ നോക്കാം ഇപ്പോൾ VGS 0 നേക്കാൾ വലുതാണ് അതിനർത്ഥം ഇൻവേർഷൻ ഉണ്ട് ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ വിപരീതചാലക ചാനലുകൾ രൂപപ്പെടുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ ചാനൽ രൂപപ്പെടുന്നു ഈ സാഹചര്യത്തിൽ VGS തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലാതെ VGSS VGB എന്നിവ ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണ് നമ്മൾ VGSS ഉപയോഗിക്കാത്തത് കാരണം ഇവിടെ സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് കാണാം ഇവിടെ ഉറവിടം ഉണ്ട് ഇതുപോലുള്ള സബ്സ്ട്രേറ്റും ഉറവിടവും നമ്മൾ കണക്റ്റുചെയ്തു ഗേറ്റിലേക്ക് പോസിറ്റീവ് ഉറവിടത്തിന് നെഗറ്റീവ് പ്രയോഗിക്കുന്നു പക്ഷേ നമ്മൾ എല്ലായ്പ്പോഴും VGS പറയുന്നു കാരണം നമ്മൾ ഒരിക്കലും VGSS അല്ലെങ്കിൽ VGB പറയുന്നില്ല ഉറവിടവും സബ്സ്ട്രേറ്റും ആന്തരികമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ ആവർത്തിക്കുന്നു ഉറവിടവും സബ്സ്ട്രേറ്റുകളും ആന്തരികമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാലാണ് നിങ്ങൾക്ക് 3 ടെർമിനലുകൾ മാത്രമുള്ള മോസ്ഫെറ്റ് ഐസികൾ കാണാൻ കഴിയുന്നത് 3 ടെർമിനലുകൾ സോഴ്സ് ഗേറ്റ് ഡ്രെയിൻ എന്നിവ കണ്ടെത്താനാകും അതിനാൽ VGS ചാനൽ ഗേറ്റ് വർദ്ധിപ്പിക്കുമെന്നാണ് ഇതിനർത്ഥം ഞാൻ VGS വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ ചാനൽ വീതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും VGS വർദ്ധിക്കുമ്പോൾ എന്റെ VGS പ്രത്യേക വോൾട്ടേജിനേക്കാൾ വലുതാകുമ്പോൾ എന്റെ നിലവിലെ ID മതിയാവോളം ആകും പിന്നെ എന്ത് സംഭവിക്കും ട്രെയിൻ കറൻറ് ൻറെ മതിയായ ഒഴുക്ക് ഉണ്ടാകും കാരണം ഇപ്പോൾ ഉറവിടത്തിൽ നിന്നുള്ള എന്റെ ഇലക്ട്രോണുകൾക്ക് ഇവിടെ ചാനൽ ഉപയോഗിച്ച് ഡ്രെയിനേജിലേക്ക് എത്താൻ കഴിയില്ല അതിനാൽ നിലവിലെ ID യുടെ ഒഴുക്ക് ഉണ്ടാകാം അതിനാൽ VGS ഈ പ്രത്യേക മൂല്യത്തിൽ എത്തുമ്പോൾ ഈ പ്രത്യേക വോൾട്ടേജിനെ നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് n ചാനൽ മോസ്ഫെറ്റുകളെക്കുറിച്ചും N ചാനൽ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റുകളെക്കുറിച്ചും ആണ് VGS ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ വലുതാകുമ്പോൾ അപ്പോൾ മാത്രമേ മതിയായ ട്രെയിൻ കറൻറ് ൻറെ പ്രവാഹമുണ്ടെന്ന് പറയാൻ കഴിയുകയുള്ളൂ അതിനാൽ VT എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജാണ് VT ഉറവിടത്തിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്ന വോൾട്ടേജ് VGS മറികടക്കേണ്ട ഏറ്റവും കുറഞ്ഞ വോൾട്ടേജാണ് ഇത് എന്ന് നമ്മൾ കണ്ടു അതിനാൽ ഉറവിടത്തിൽ നിന്ന് ഡ്രെയിനിലേക്ക് ആവശ്യത്തിന് കറന്റ് ഒഴുകുന്നുണ്ടെന്നും ഇത് നമ്മുടെ നിലവിലെ ID യാണെന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ എനിക്ക് VT യെക്കാൾ വലിയ VGS ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ സാഹചര്യത്തിൽ എന്റെ ID വർദ്ധിച്ചുകൊണ്ടിരിക്കുമോ VDS പ്രയോഗിക്കുമ്പോൾ ഉറവിടവുമായി ബന്ധപ്പെട്ട് ഡ്രെയിൻ പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ കാണുന്നു ഉറവിടവുമായി ബന്ധപ്പെട്ട് എന്റെ ഗേറ്റ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഡ്രെയിൻ ഇലക്ട്രോണിനെ ആകർഷിക്കാൻ തുടങ്ങും പക്ഷേ ഇലക്ട്രോണിന്റെ ഒഴുക്ക് രൂപപ്പെടുന്നതിന് മുമ്പ് ചാനലില്ല പക്ഷേ ഉറവിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗേറ്റ് പോസിറ്റീവ് വോൾട്ടേജിലാണ് ചാനലിന്റെ രൂപവത്കരണവും ഉറവിടത്തിൽ നിന്നുള്ള ഇലക്ട്രോണിനെ ഡ്രെയിനിലേക്ക് നീങ്ങാൻ സഹായിക്കും അങ്ങനെ ഡ്രെയിൻ കറന്റ് ID സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ ഞാൻ VGS വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ID വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനാൽ മറ്റൊന്ന് ആന്തരികമായി സബ്സ്ട്രേറ്റ് ലേക്ക് ഉറവിടത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള കാരണം എന്താണ് സബ്സ്ട്രേറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഈ ഉറവിടം ബന്ധിപ്പിക്കേണ്ടിവന്നു അതിനാൽ ഉറവിടവും സബ്സ്ട്രേറ്റ്യും ബന്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു കാരണം പക്ഷപാത സാധ്യതകൾ ഒഴിവാക്കുക എന്നതാണ് അതിനാൽ ഞാൻ ആന്തരികമായി ഉറവിടത്തെ സബ്സ്ട്രേറ്റ്യുമായി ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു ബയാസ് പൊട്ടൻഷ്യൽ പ്രയോഗിക്കുന്നു ഇത് ഒഴിവാക്കാൻ അതിനാൽ ഞാൻ ഉപയോഗിക്കുന്ന നിരവധി പക്ഷപാത സാധ്യതകൾ ഞാൻ പ്രയോഗിക്കുന്നില്ല പകരം ഉറവിടത്തെ ആന്തരികമായി ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസി ഉള്ളപ്പോൾ ഒരുപാട് ബയാസ് പൊട്ടൻഷ്യൽ ഒഴിവാക്കാൻ ഉറവിടവും സബ്സ്ട്രേറ്റുകളും ആന്തരികമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തത് ഡിപ്ലിഷൻ ലെയറിൽ വോൾട്ടേജ് VDS ന്റെ പ്രഭാവം കണ്ടെത്തണം ഈ ഡിപ്ലിഷൻ ലെയറിൽ വോൾട്ടേജ് VDSന്റെ പ്രഭാവം എന്ത് സംഭവിക്കും കാരണം ഗേറ്റിനും ട്രെയിനിനും ഇടയിൽ വികസിപ്പിച്ച വോൾട്ടേജ് എന്താണ് അതിൻറെ പ്രഭാവം എന്താണ് എന്നിവ നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് അതിനാൽ ഡിപ്ലിഷൻ ലെയറിൽ വോൾട്ടേജ് VDS ന്റെ പ്രഭാവം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗേറ്റിലുടനീളമുള്ള വോൾട്ടേജ് എന്താണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ സ്കീമാറ്റിക് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ വിജിഡി കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ഉപയോഗിക്കേണ്ടി വരും ഞാൻ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതിനാൽ നമ്മൾ ഇവിടെ നിന്ന് VG യിലേക്ക് പോകുന്നു തുടർന്ന് നമ്മൾ ഈ 1 VGS ലേക്ക് പോകുന്നു തുടർന്ന് നമ്മൾ ഇവിടെ പോകുന്നു ഇവിടെ ഈ ദിശയിൽ എല്ലാം ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഈ ദിശയിൽ പോകുന്നു അതിനാൽ VG VGS VDS VD ഞങ്ങളുടെ പദം ഞാൻ പുനക്രമീകരിക്കുകയാണെങ്കിൽ VG VD VGS VDS അത് ശരിയായ വഴിയാണ് അതിനർത്ഥം ഗേറ്റിലും ഡ്രെയിനിലുമുള്ള എന്റെ വോൾട്ടേജ് ഇതാണ് അതുകൊണ്ടാണ് VGDയും VDS സും തമ്മിലുള്ള ബന്ധം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത് അതായത് VGD VGS VDS ഇത് ഞാൻ ശരിയായി കണ്ടെത്തിയ ഒന്നാണ് ഇപ്പോൾ ഞാൻ 3 വ്യത്യസ്ത കേസുകൾ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നു കേസ് ഒന്ന് VDS0 വോൾട്ട് പരിഗണിക്കുമ്പോൾ ആദ്യത്തെ കേസ് ആദ്യം നോക്കാം VGD VGS VDS ഒരു സമവാക്യത്തിൽ നിന്ന് നമ്മൾ ഇവിടെ കണ്ടെത്തി VGD VGS VDS പക്ഷേ ഇവിടെ എന്റെ വിഡിഎസ് 0 വോൾട്ട് ആണ് അതിനാൽ എനിക്ക് എഴുതാം VGD VGS കാരണം എന്റെ VDS 0 വോൾട്ട് അതായത് അപചയ മേഖലയുടെ വീതി ഏകതാനമായിരിക്കും ഇപ്പോൾ എനിക്ക് VT 1 volt VGS 2 volt VGD അതിനാൽ ഒരു അധിക വോൾട്ടേജ് ആയിരിക്കും അത് ഒന്നുമല്ല പക്ഷേ ചാനലിന്റെ വീതി അധിക വോൾട്ടേജ് VGS VT 2 - 11 വോൾട്ട് ഇവിടെ ഒരു അവസ്ഥ എന്താണെന്ന് കാണുക എനിക്ക് VT 1 വോൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് VGS 2 volt അതുപോലെ എനിക്ക് VGS 3 വോൾട്ട് ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ VT 1 വോൾട്ട് എന്റെ അധിക വോൾട്ടേജ് 2 വോൾട്ട് ചാനലിന്റെ വീതി ശരിയായിരിക്കും അതിനാൽ VDS 0 വോൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിച്ച ഒന്ന് കഴിയും കേസ് നമ്പർ 2 നോക്കാം ഇത് VDS≠ 0 വോൾട്ട് ആണ് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും VDS 0 വോൾട്ട് അത് 0 ന് തുല്യമല്ലെന്ന് മാത്രമല്ല അത് 0 നേക്കാൾ വലുതാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ VGD ഈ സമവാക്യം വീണ്ടും സമവാക്യത്തിന്റെ ഒന്നാം സ്ഥാനത്താണ് ഈ സാഹചര്യത്തിൽ VDS 0 VDS വർദ്ധിക്കുന്നു VDS വർദ്ധിച്ചാൽ VGS വോൾട്ട് കുറയുകയും VGD യും കുറയും ഇത് ഡ്രെയിൻ ഗേറ്റിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആയി മാറുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഗേറ്റിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആയി ഡ്രെയി മാറുകയാണെങ്കിൽ ഡിപ്ലിഷൻ റീജിയൻ ഏകീകൃതമാകില്ല വീണ്ടും കാണുക ഈ അവസ്ഥ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ VGD VGS VDS ഉണ്ട് പക്ഷേ ഞാൻ VDS വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ VGD ശരിയായ കുറവ് തുടരും ഇപ്പോൾ VGD കുറയുന്നത് തുടരുകയാണെങ്കിൽ അതിനർത്ഥം എന്റെ ഡ്രെയിൻ കൂടുതൽ പോസിറ്റീവ് ആയി മാറുന്നു VSD കൂടുതൽ പോസിറ്റീവ് ആയിത്തീരുന്നു VGS അങ്ങനെ പോകുന്നു പക്ഷേ VGD VGS VDS എന്റെ VGD കുറയുകയാണെങ്കിൽ അതിനർത്ഥം എന്റെ ഡ്രെയിൻ വോൾട്ടേജ് ഗേറ്റിനേക്കാൾ പോസിറ്റീവ് ആയിത്തീരുന്നു ഈ സാഹചര്യത്തിൽ ഡിപ്ലിഷൻ റീജിയൻ ഏകീകൃതമല്ല കേസ് നമ്പർ 3 നോക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് VDS VGS VD ഇപ്പോൾ ഈ കേസിൽ ഇത് മറ്റൊരു കേസാണ് VGS VGS VD നമുക്ക് ഈ സമവാക്യം വീണ്ടും നോക്കാം സമവാക്യ നമ്പർ 1 VGDVGS VDS കാരണം VDS ന്റെ പകരമുള്ള മൂല്യം ഇവിടെത്തന്നെയാണ് അപ്പോൾ എനിക്ക് ഉണ്ട് VGD VGS VGS VD അതിനാൽ VGD VD ഇത് ത്രെഷോൾഡ് വോൾട്ടേജിൽ ഒന്നുമല്ല അതിനർത്ഥം ചാനൽ വീതി ഇടുങ്ങിയതായിത്തീരും ഇത് ഡ്രെയിനിനടുത്ത് മാത്രമേ സംഭവിക്കൂ നിങ്ങൾ മനസിലാക്കിയത് ഈ സമവാക്യത്തിൽ നിന്ന് ഞാൻ ഈ പ്രത്യേക കേസ് പരിഗണിക്കുകയാണെങ്കിൽ എനിക്ക് അപ്പോൾ ഉള്ളത് VDG VT ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും കാരണം എന്റെ VDG VT ആയതിനാൽ ചാനൽ വീതി ഇടുങ്ങിയതായിത്തീരും ഇത് ഡ്രെയിനിനടുത്ത് സംഭവിക്കുകയും ഡ്രെയിനിനടുത്തുള്ള ചാനൽ വീതി ഇടുങ്ങിയതായിത്തീരുകയും ചെയ്യും അതിനർത്ഥം എന്റെ വോൾട്ട് എന്റെ കറന്റ് ഒരു തരത്തിലുള്ള റിഗ് ആണ് എന്റെ നിലവിലെ റിഗ് സ്ഥിരമാണ് ഈ പ്രത്യേക വോൾട്ടേജിനെ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു ഞാൻ നുള്ളിയെടുക്കുന്നതുപോലെ നിങ്ങൾ എന്തെങ്കിലും നുള്ളിയാൽ അതിൻറെ അവശിഷ്ടങ്ങൾ അവിടെത്തന്നെ ഉണ്ടാകുന്നു അതിനാൽ നമ്മൾ വർദ്ധിക്കുന്നതിന് എതിരായി പിഞ്ച് ഓഫ് ചെയ്യുന്നതായി തോന്നുന്നു ചിലപ്പോൾ ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജ് ആവശ്യമാണ് അത് പൂരിതമാകാൻ തുടങ്ങും അതിനാൽ ഇതിനെ VD സാച്ചുറേഷൻ അല്ലെങ്കിൽ VD സെറ്റ് എന്നും വിളിക്കുന്നു അപ്പോൾ VD സെറ്റ് എപ്പോൾ സംഭവിക്കും VGS VGS VGക്ക് ആവശ്യമായ അവസ്ഥയിലെത്തുമ്പോൾ VD സെറ്റ് സംഭവിക്കും അതിനാൽ നമ്മൾ 3 വ്യത്യസ്ത കേസുകൾ കണ്ടു ഒന്ന് VDS 0 രണ്ടാമത്തെ കേസ് VDS ≠ 0 and VDS 0 മൂന്നാമത്തേത് VDS VGS VD ഇപ്പോൾ എനിക്ക് മനസിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു എൻഹാൻസ്മെൻറ് തരത്തിന്റെ ട്രെയിനും ട്രാൻസ്ഫർ സവിശേഷതകളും എന്താണ് ഒരു എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റിന്റെ ഡ്രെയിൻ ട്രാൻസ്ഫർ സവിശേഷതകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാൻ താൽപ്പര്യപ്പെടുന്നു ഔട്ട്പുട്ട് വോൾട്ടേജ് VDS ആണെന്നും ഔട്ട്പുട്ട് കറന്റ് IDയാണെന്നും കൺട്രോൾ വേരിയബിൾ VGS ആണെന്നും ഇപ്പോൾ നമുക്കറിയാം കാരണം ഞാൻ VGS വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ എന്റെ കറന്റ് വർദ്ധിക്കുന്നു അതിനാൽ കൺട്രോൾ വേരിയബിൾ എന്റെ VGS ആണ് ഇപ്പോൾ ഡ്രെയിൻ ക്യാരക്ടർസ്റ്റിക്സ് വിവിധ തലത്തിലുള്ള VGS നായി ID വേഴ്സസ് VDS ആണ് ഇപ്പോൾ VT യും സ്ഥിരമായ K യും ഇതിനകം നൽകിയിട്ടുണ്ട് അതിനർത്ഥം ത്രെഷോൾഡ് വോൾട്ടേജിന്റെ മൂല്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്ത കേസുകൾ പരിഗണിക്കുകയാണ് ആദ്യത്തെ കേസ് VGSVT സോഴ്സിൽ നിന്നും നിന്നും ഗേറ്റിലേക്ക് ഉള്ള വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ വലുതാകുമ്പോൾ എന്തുസംഭവിക്കും V ഫലപ്രദമല്ല പക്ഷേ VGS VT ഉണ്ട് നമ്മൾ വിഡിഎസ് 0 പ്രയോഗിക്കുമ്പോൾ നിലവിലെ കറൻറ് 0 ന് തുല്യമാണെന്ന് സൂചിപ്പിക്കുന്നു അതിനർത്ഥം ഞാൻ ഇവിടെ 0 വോൾട്ടേജ് പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും പ്രയോഗിക്കുന്നില്ലെങ്കിൽ കറന്റ് 0 ആയിരിക്കും ഞാൻ VDS വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്റെ കറന്റ് വർദ്ധിക്കാൻ തുടങ്ങും അതിനാൽ ഒരു വോൾട്ടേജ് വരെ ഇത് വർദ്ധിക്കും അത് നമ്മൾ ഇതിനകം കണ്ട എന്റെ പിഞ്ച് ഓഫ് വോൾട്ടേജാണ് എന്റെ കറന്റ് സ്ഥിരമായി മാറും എന്റെ കറന്റ് സ്ഥിരമാകും പിഞ്ച് ഓഫ് വോൾട്ടേജ് ഒന്നുമല്ല പക്ഷേ എന്റെ VD സാച്ചുറേഷൻ ആണ് കേസ് ഒന്ന് VGS VT Veffective VGS VT VDS 0 ID 0 VDS വർദ്ധിക്കുന്നു ID വർദ്ധിക്കുന്നു VDSVD സാച്ചുറേഷൻ എന്റെ പിഞ്ച് ഓഫ് വോൾട്ടേജാണ് ഈ പ്രത്യേക അവസ്ഥയിൽ എന്റെ വിഡി സാച്ചുറേഷൻ VDSVGS VT ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇവിടെ ഞാൻ ഈ പ്രത്യേക സർക്യൂട്ടിനായി കിർചോഫ് വോൾട്ടേജ് നിയമം പ്രയോഗിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും VDS നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇതുപോലുള്ള ദിശയിൽ അതിനാൽ VDS VGD VGS 0 VGD VGS VDS സൂചിപ്പിക്കുന്നു ഇത് പിഞ്ച് ഓഫിലെ പിഞ്ച് ഓഫ് വോൾട്ടേജിനു സമാനമാണ് VDS VGS VT VGS VT പിഞ്ചുചെയ്യുന്നത് ശരിയാണെന്ന് നമുക്കറിയാം അതിനാൽ പിഞ്ച് ചെയ്യുമ്പോൾ ഡ്രെയിനും സോഴ്സിനും ഇടയിലുള്ള വോൾട്ടേജ് VDS VGS VT ആണ് അത് VGD ആണ് അതിനാൽ ഈ പ്രത്യേക സമവാക്യത്തിൽ ഞാൻ ഈ മൂല്യം മാറ്റിസ്ഥാപിക്കുമ്പോൾ VGD VGS VGS VT അപ്പോൾ എൻറെ VGD ത്രെഷോൾഡ് വോൾട്ടേജ് VT ക്ക് തുല്യമാകും അതിനാൽ ചാനലിന്റെ വീതി 0 ലേക്ക് എത്തുന്നതായി തോന്നുന്നു ചാനലിന്റെ വീതി കുറയുന്നു ഇവിടെ നിന്ന് അത് കുറയുന്നു തുടർന്ന് അത് ഇവിടെയെത്തും നിങ്ങൾക്ക് ഇവിടെ ഇടത് കാണാൻ കഴിയുന്നത് അത് 0 തോട് അടുക്കുന്നതായി തോന്നുന്നു അതിനാലാണ് ID സാച്ചുറേഷൻ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന VD VGS VT നിങ്ങൾ കാണുന്നു അതിനാൽ ഞാൻ എന്റെ VDS വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ എന്റെ ID യിൽ മാറ്റം കാണാൻ കഴിയും എന്റെ VDS വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ വീണ്ടും കാണുന്നു എന്റെ ID യിൽ മാറ്റം കാണുന്നത് നിങ്ങൾ കാണുന്നു പക്ഷേ അതിന് എത്താൻ കഴിയില്ല എന്റെ VGS നെ ആശ്രയിക്കേണ്ടതുണ്ട് എനിക്ക് VGS1 VGS2 VGS3 2 VGS ത്രെഷോൾഡ്ന് തുല്യമാണ് അതിനാൽ ഈ മൂല്യത്തിന് മുകളിൽ VGS ത്രെഷോൾഡ് മൂല്യത്തേക്കാൾ വലുതാണ് VGSVT യും VGSVT യും എന്റെ കറൻറ് ഒഴുകാൻ ആരംഭിക്കുന്നു നമ്മൾ ഇത് ആദ്യത്തെ സ്ലൈഡിൽ കണ്ടു അതായത് വർദ്ധിക്കുന്ന വോൾട്ടേജിൽ കറന്റ് വർദ്ധിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ എത്ര VGS പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചോ എനിക്ക് മാറ്റം കാണാൻ കഴിയും അതിനാൽ ഞാൻ എന്റെ VGS വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഉയർന്ന കറൻറ് എനിക്ക് കാണാൻ കഴിയും കൂടാതെ ഈ പ്രത്യേക പ്രദേശത്ത് ഒരു സാച്ചുറേഷൻ ഉണ്ടെന്ന് നിങ്ങൾ കാണും അല്ലെങ്കിൽ പിഞ്ച് ചെയ്യുന്നു അതിനാൽ നിങ്ങൾ VD സാച്ചുറേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ VD സാച്ചുറേഷൻ വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ അത് ബ്രേക്ക്ഡൌൺനു കാരണമാകും VGS ന്റെ ഒരു പ്രത്യേക മൂല്യത്തിനായി നമുക്ക് ID ഉണ്ട് അതിനാൽ ഞാൻ VDS വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ ഞാൻ കാണുന്നത് ഇതാണ് എന്റെ നിലവിലുള്ള കറൻറ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു VDS ഇതാണ് ID ഇതാണ് ഞാൻ എന്റെ VDS വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ ഞാൻ എന്റെ വിഡിഎസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗേറ്റ് ഫ്ലോ വോൾട്ടേജിനെ ആശ്രയിച്ച് കറന്റിലെ മാറ്റം ഞാൻ കാണും എന്നിട്ട് അത് VGS നെ പൂരിതമാക്കും അത് ഇവിടെയെത്തും ഇവിടെ പെട്ടെന്നുതന്നെ ബ്രേക്ക്ഡൌൺ സംഭവിക്കും എന്റെ മോസ്ഫെറ്റിന് കേടുപാടുകൾ സംഭവിക്കാം അതിനാൽ നമ്മൾ മനസിലാക്കുന്നത് സ്ഥിരമായ ഒരു VGS നായി നമുക്ക് VDS പ്രയോഗിക്കാൻ കഴിയും എന്നാൽ VDS ന്റെ ചില വോൾട്ടേജുകൾ കവിയുന്നത് നിങ്ങൾ കാണുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് മറ്റൊരു കേസ് നോക്കാം VGSVT എന്ന് നമ്മൾ പരിഗണിച്ചയിടത്ത് നമ്മൾ പരിഗണിച്ച ആദ്യത്തെ കേസ് നമ്മൾ കണ്ടു വിജിഎസ് 2 വിജിഎസ് 1 നെക്കാൾ കുറവുള്ള രണ്ടാമത്തെ കേസ് പരിഗണിക്കാം VGS2 ചുവപ്പ് നിറമാണ് ഇവിടെ ഇവിടെ തവിട്ട് നിറമോ ചുവപ്പ് നിറമോ കാണിക്കുന്ന ലൈൻ VGS2 ഉം ഈ ലൈൻ നമ്മുടെ VGS1 ഉം ആണ് അതിനാൽ VGS2 VGS1 നെക്കാൾ കുറവാണെന്ന് നമുക്ക് പരിഗണിക്കാം അപ്പോൾ ചാനൽ വീതി കൂടും ഞാൻ ചാനൽ വീതി കൂട്ടുകയാണെങ്കിൽ എന്റെ ചാലകത വർദ്ധിക്കും അല്ലെങ്കിൽ എന്റെ പ്രതിരോധം കുറയും ഇപ്പോൾ VGS2VGS1 ആണ് അതിനർത്ഥം 2 ലെ എന്റെ റെസിസ്റ്റീവിറ്റി ഒന്നിനേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ R2 R1 അതിനാൽ എനിക്ക് എന്ത് ലഭിക്കും VDS VGS VT അതിനുശേഷം ഞങ്ങൾക്ക് ഒന്നുമില്ല പക്ഷേ VGS2VGS1 ആയതിനാലാണ് രണ്ടാമത്തേതിന് ചരിവ് ഒന്നാമത്തെ തിനേക്കാൾ കുറവായതും നേരത്തെയുള്ള പിഞ്ച് ഓഫ് സംഭവിക്കുന്നതും അതായത് ഇവിടെ നേരത്തെ പിഞ്ച് ഓഫ് സംഭവിക്കും എന്റെ VGS2 VGS1 ഈ പ്രത്യേക സമവാക്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്താണെന്ന് വീണ്ടും നോക്കാം അതിനർത്ഥം 2 ലെ പ്രതിരോധം ഒന്നിൻറെ പ്രതിരോധത്തേക്കാൾ വലുതാണെന്ന് ഞാൻ കാണുന്നു കാരണം ഗേറ്റിൽ നിന്നും സോഴ്സിലേക്ക് ഉള്ള വോൾട്ടേജ് കൂടുതലാണ് അതിനർത്ഥം VGS1 ലെ കറൻറ് കൂടുതലാണെന്ന് ഞാൻ കാണും കാരണം 2 ലെ ചെറുത്തുനിൽപ്പിനെ അപേക്ഷിച്ച് ഒന്നിന്റെ പ്രതിരോധം കുറവാണ് VGS2 കാരണം രണ്ടിലെ പ്രതിരോധം ഒന്നിലെ പ്രതിരോധത്തെ അപേക്ഷിച്ച് ഉയർന്നതായിരിക്കും ഞാൻ VGS1 പ്രയോഗിക്കുമ്പോൾ എൻറെ കറണ്ട് കൂടുതലായിരിക്കും ഞാൻ VGS2 പ്രയോഗിക്കുമ്പോൾ എന്റെ കറൻറ് കുറവായിരിക്കും ഇത് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാം VGS ന്റെ വ്യത്യസ്ത മൂല്യത്തിനായി എനിക്ക് കറൻറ്ൻറെ വ്യത്യസ്ത മൂല്യങ്ങളുണ്ട് എന്തുകൊണ്ടെന്നാൽ VGSVGS2 അതിനാൽ നേരത്തെ എന്ത് സംഭവിക്കും VGS മായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്റെ പിഞ്ച് ഓഫ് നേരത്തേ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഒരു സാച്ചുറേഷൻ മേഖല ഉണ്ടെങ്കിൽ എന്താണ് സാച്ചുറേഷൻ മേഖല എന്റെ VDS വളരെ ഉയർന്നതാണെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ VDS VGS VTയേക്കാൾ വലുതും എന്റെ ID k 2 ഉം ആയിരിക്കും പിന്നെ എന്ത് ലഭിക്കും എന്റെ k ഒന്നുമല്ല അതിൻറെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല അതിനാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന സമവാക്യം അതുപോലെ ഉപയോഗിക്കുക സമവാക്യം ശരിക്കും ഉരുത്തിരിയരുത് നമ്മൾ പിന്നീട് 2 വ്യുൽപ്പന്നങ്ങൾ കാണും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സമവാക്യം നൽകിയാൽ സമവാക്യത്തിൽ നിന്ന് ഡ്രെയിൻ സ്വഭാവസവിശേഷതകൾ മനസിലാക്കാൻ സാധിക്കുമോ ഇപ്പോൾ ഞാൻ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കുള്ള വോൾട്ടേജ് മാറ്റുകയാണെങ്കിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും മോസ്ഫെറ്റിന്റെ പ്രകടനം എങ്ങനെ മാറാൻ പോകുന്നു എന്ന ആശയം ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുക ഇത് സാച്ചുറേഷൻ മേഖലയാണ് VDS VGS VT ID k 2 k സ്ഥിരവും അത് Wl അനുപാതത്തെ ആശ്രയിച്ചിരിക്കുന്നു Wl അനുപാതം അപ്പോൾ ചാനൽ അനുപാതമാണ് എനിക്ക് k സ്ഥിരാങ്കത്തിന് തുല്യമാണ് k ID 2 അത് ms v2 ൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ ട്രയോഡ് മേഖല കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഈ പ്രത്യേക ഗ്രാഫ് പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന വോൾട്ടേജ് VDS വേഴ്സസ് കറൻറ് ID ആണ് VGS ന്റെ വ്യത്യസ്ത മൂല്യത്തിനായി വ്യത്യസ്ത കറന്റ് കാണുക ഇവിടെ നമ്മൾ കാണുന്നതെന്തെന്നാൽ നിങ്ങൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് കാണുകയാണെങ്കിൽ ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന രേഖ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ VDS സാച്ചുറേഷന്റെ ഇടതുവശത്തുള്ള എല്ലാം നമ്മുടെ ട്രയോഡ് മേഖലയാണ് ഒപ്പം VDS VGS VT അതിനാൽ നമുക്ക് എഴുതാം ID 2k VDS VDS2 2 കട്ട് ഓഫ് മേഖല എവിടെയാണെന്ന് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ അതെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ പ്രദേശത്താണ് അതിനാൽ VGS VT യെക്കാൾ വളരെ കുറവാണെങ്കിലോ അല്ലെങ്കിൽ VT ക്ക് തുല്യം ആണെങ്കിലോ നിലവിലെ ID0 ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കറന്റ് 0 ആണ് കാരണം എന്റെ VGSVT ആണ് ഇപ്പോൾ n ചാനൽ MOSFET ന്റെ ട്രാൻസ്ഫർ സവിശേഷതകൾ നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത് വലതുവശത്തേക്ക് നോക്കുക എന്റെ പക്കലുള്ളത് എനിക്ക് VDS ഉണ്ട് എനിക്ക് ഇവിടെ നിലവിലുള്ള ID കറന്റ് ഉണ്ട് വിജിഎസിന്റെ വ്യത്യസ്ത മൂല്യത്തിനായി ഈ ഗ്രാഫ് നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാം അതിനാൽ എന്റെ ത്രെഷോൾഡ് വോൾട്ടേജ് VT2 വോൾട്ട് ആണെന്ന് കരുതുക ഞാൻ VT2 വോൾട്ട് ആണെന്ന് കരുതുന്നു തുടർന്ന് ഗേറ്റിൽ നിന്നും സോഴ്സ് ലേക്കുള്ള വോൾട്ടേജ് അതായത് എന്റെ VGS 2 വോൾട്ടിനേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ ഞാൻ ഇവിടെ കണക്കാക്കുന്നത് VGS 2 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട് 5 വോൾട്ട് 6 വോൾട്ട് 7 വോൾട്ട് 8 വോൾട്ട് എന്നിവയാണ് VGS വർദ്ധിക്കുമ്പോൾ എനിക്ക് ഡ്രെയിൻ കറന്റ് വർദ്ധിക്കുന്നത് കാണാനാകും ഗ്രാഫ് ഇതാണ് ട്രാൻസ്ഫർ സ്വഭാവസവിശേഷതകൾ വളരെ എളുപ്പത്തിൽ വരയ്ക്കണമെങ്കിൽ നിങ്ങൾ VGS നെതിരെ ID വരയ്ക്കണം അതാണ് നിങ്ങൾ ഇപ്പോൾ വരയ്ക്കേണ്ട പ്ലോട്ട് നിങ്ങൾ VGS ന്റെ തുടക്കത്തിൽ 0 മുതൽ നിങ്ങൾ എത്ര വോൾട്ട് പ്രയോഗിച്ചുവെന്നത് വരെ എഴുതുക അതിനാൽ 0 1 2 3 4 5 6 7 8 എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഈ VGS മൂല്യത്തെ ബന്ധിപ്പിക്കുക എന്നതാണ് ഈ 0 മൂല്യം ഇവിടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിനാൽ 4 വോൾട്ട് ഇവിടെയുണ്ട് 5 വോൾട്ട് ഇവിടെയുണ്ട് 6 വോൾട്ട് 6 വോൾട്ട് ഇവിടെയുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം പരിഗണിക്കാം അതിനാൽ ഞാൻ ഇതുപോലെയാണ് കണക്റ്റുചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കറൻറ് കാണും എനിക്ക് ഇവിടെ കറന്റ് ഉണ്ട് എനിക്ക് രണ്ട് പ്ലോട്ടുകളിലും y ദിശയിൽ കറന്റ് ഉണ്ട് ഇവിടെ എനിക്ക് കറന്റ് ഉണ്ട് അതിനാൽ ഞാൻ കറന്റ് ലൈൻ വയ്ക്കുന്നു 10 നിന്ന് 9 ലേക്ക് 9 നിന്ന് 8 ലേക്ക് 8 നിന്നും 7 ലേക്ക് അങ്ങനെയങ്ങനെ 2 നിന്നും 1 ലേക്ക് ഞാൻ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് കറന്റ്ൻറെ അക്ഷം കിട്ടും രണ്ട് y അക്ഷവും ഐഡി ആയതിനാൽ ഇത് എളുപ്പമാണ് ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് വോൾട്ടേജ് കണ്ടെത്തേണ്ടിവന്നു അതിനാൽ ഇതിനായുള്ള വോൾട്ടേജ് VGS3 വോൾട്ട് ഇവിടെയാണ് വിജിഎസ് 3 വോൾട്ടിന് തുല്യമായ പോയിൻറ് ഇവിടെ VGS4 വോൾട്ട് ഇവിടെ VGS6 വോൾട്ട് ഇവിടെ VGS8 വോൾട്ട് ഇവിടെ 9 വോൾട്ട് അതിനാൽ ഇപ്പോൾ എനിക്ക് വരകൾ വരച്ച് ചേർക്കേണ്ടിവരും ID വേഴ്സസ് VGS നെ നിങ്ങൾക്കറിയാമെങ്കിൽ VGS നെതിരെയുള്ള ID യുടെ ട്രാൻസ്ഫർ സവിശേഷതകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വേഗത്തിൽ മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ VDS വേഴ്സസ് ID നമ്മൾ ഇവിടെ വരച്ചു VGS വേഴ്സസ് ID പ്ലോട്ട് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നു ഞാൻ ആദ്യം ചെയ്തത് രണ്ടു പ്ലോട്ടുകളിലും കറൻറ്ൻറെ വരകൾ വരച്ചു എന്നതാണ് ഞാൻ ഒരു വോൾട്ട് മുതൽ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട് 5 വോൾട്ട് 6 വോൾട്ട് 7 വോൾട്ട് 8 വോൾട്ട് എന്നിവയിൽ നിന്ന് വര വരയ്ക്കും ഇതാണ് എന്റെ VGS ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് എനിക്ക് VGS3 വോൾട്ട് കാണണം എന്റെ കറന്റ് ഒന്നാണ് അതിനാൽ ഞാൻ ഇവിടെ ഒരു അടയാളം ഇടും മറ്റൊന്ന് VGS5 വോൾട്ട് എന്റെ കറന്റ് ഏകദേശം 2 ആണ് അതിനാൽ ഞാൻ ഇത് ഇവിടെ അടയാളപ്പെടുത്തും ഇത് 6 വോൾട്ടിന് തുല്യമാണ് എന്റെ കറന്റ് ഏകദേശം 4 അതിനാൽ ഞാൻ വീണ്ടും ഇവിടെ ഒരു അടയാളം ഇടുകയാണെങ്കിൽ എന്റെ VGS 7 ബോൾട്ടിന് തുല്യമാണ് എന്റെ കറന്റ് ഏകദേശം 7 മില്ലിയാംപിയർ അതിനാൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നു എന്റെ VGS8 വോൾട്ട് ചെയ്യുമ്പോൾ എന്റെ കറന്റ് ഏകദേശം 10 മില്ലിയാംപിയറാണ് അതിനാൽ ഞാൻ ഇവിടെ വീണ്ടും അടയാളപ്പെടുത്തുന്നു ഇപ്പോൾ ഞാൻ ഇതുപോലുള്ള എല്ലാ മാർക്കുകളിലും ചേർക്കുകയാണെങ്കിൽ എനിക്ക് സ്വഭാവസവിശേഷതകൾ കിട്ടും ഇപ്പോൾ ട്രയോഡ് പ്രദേശങ്ങളിൽ എന്നാൽ നമ്മുടെ ഓമിക് മേഖല നിങ്ങൾക്കറിയാവുന്ന സാച്ചുറേഷൻ മേഖല VDS VGS VT ഒപ്പം ID k2 എന്നിട്ട് കട്ടോഫ് പ്രദേശം ഉണ്ട് അതിനാൽ ട്രാൻസ്ഫർ സവിശേഷതകൾ ലഭിക്കുമ്പോൾ സാച്ചുറേഷൻ പ്രദേശങ്ങൾ മാത്രമാണ് സാച്ചുറേഷൻ ലെവലുകൾ ഉപയോഗിക്കുന്നത് കാരണം ID k2 അതിനാൽ ഞങ്ങൾക്ക് ഒരു രേഖീയ വക്രവും ഉണ്ടാകില്ല ഇത് n ചാനൽ MOSFET ന്റെ ട്രാൻസ്ഫർ സവിശേഷതകളാണ് ഇപ്പോൾ അടുത്ത മൊഡ്യൂളിൽ എന്താണ് ഡിപ്ലിഷൻ തരം മോസ് ട്രാൻസിസ്റ്റർ എന്ന് നമുക്ക് കാണാം ഡിപ്ലിഷൻ ടൈപ്പ് മോസ് ട്രാൻസിസ്റ്റർ അടുത്ത ക്ലാസ് നമ്മൾ ഇപ്പോൾ തന്നെ തുടരും നിങ്ങൾക്ക് ഒരു N ചാനൽ മോസ്ഫെറ്റും എൻഹാൻസ്മെൻറ് തരത്തിലുള്ള മോസ്ഫെറ്റും നൽകിയിട്ടുണ്ടെങ്കിൽ മോസ്ഫെറ്റ് എങ്ങനെ പ്രവർത്തിക്കും വ്യത്യസ്ത കേസുകൾ എങ്ങനെ മനസിലാക്കാം ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കുള്ള വോൾട്ടേജ് വ്യത്യസ്തം ആകുമ്പോൾ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റിനായുള്ള ഡ്രെയിൻ ട്രാൻസ്ഫർ സവിശേഷതകൾ എങ്ങനെ വരയ്ക്കാം ഇതൊക്കെയാണ് ഈ മോഡ്യൂളിൽ നമ്മൾ കണ്ടത് കൂടാതെ ഈ ഡ്രെയിൻ ട്രാൻസ്ഫർ സ്വഭാവ സവിശേഷതകളുടെ വക്രം നമുക്ക് എങ്ങനെ നേടാം VGS ന്റെ വ്യത്യസ്ത മൂല്യം പരിഗണിക്കുമ്പോൾ VDS ന്റെ വ്യത്യസ്ത മൂല്യം പരിഗണിക്കുമ്പോൾ സാച്ചുറേഷൻ വോൾട്ടേജ് എന്തൊക്കെയാണ് കട്ട് ഓഫ് വോൾട്ടേജുകൾ എന്താണ് ട്രയോഡ് മേഖല എന്താണ് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ സ്വഭാവസവിശേഷതകൾ പ്ലോട്ട് ചെയ്യാൻ കഴിയും എന്നിവയും നമ്മൾ കണ്ടു നിങ്ങൾക്ക് ID വേഴ്സസ് VDS പ്ലോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത സോഴ്സ് ഗേറ്റ് വോൾട്ടേജുകൾ പ്രയോഗിച്ചുകൊണ്ട് എൻഹാൻസ്മെൻറ് തരത്തിൻറെ ID വേഴ്സസ് VDS പ്ലോട്ട് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് ID വേഴ്സസ് VGS പ്ലോട്ടും വരയ്ക്കാനും അത് കറൻറ് ലൈനുമായി ബന്ധിപ്പിക്കാനും കഴിയും ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനായി നമുക്ക് ലംബ വരകൾ വരയ്ക്കാം തുടർന്ന് VDS നെതിരെയുള്ള എന്റെ ID യിൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിനായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനനുസരിച്ച് എന്റെ കറന്റ് എന്താണ് ഞാൻ ID VGS പ്ലോട്ടിൽ കറന്റ് ഇടും എൻഹാൻസ്മെൻറ് തരം MOSFET എന്നതിനായുള്ള എന്റെ കൈമാറ്റ സവിശേഷതകൾ ഞാൻ ഉരുത്തിരിഞ്ഞു ഇങ്ങനെയാണ് അതിനാൽ ഒരു N ചാനൽ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റ് അല്ലെങ്കിൽ എൻ ചാനൽ മോസ്ഫെറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ഫാബ്രിക്കേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് യഥാർത്ഥ ഫാബ്രിക്കേഷൻ അല്ല പരീക്ഷണാത്മക മാർഗ്ഗവും അല്ല മറിച്ച് കുറഞ്ഞത് നിങ്ങൾ ഒരു മോസ്ഫെറ്റ് കെട്ടിച്ചമയ്ക്കുന്നതിനുള്ള പ്രോസസ് ഫ്ലോ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന സിദ്ധാന്തത്തിൽ കണ്ടു തുടർന്ന് നമ്മൾ ഈ പ്രത്യേക പ്രഭാഷണത്തിലേക്ക് നീങ്ങി അവിടെ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റ് എങ്ങനെ പെരുമാറുമെന്നും കൈമാറ്റ സവിശേഷതകൾ എന്താണെന്നും നിങ്ങൾ ഇപ്പോൾ കണ്ടു അടുത്ത പ്രഭാഷണം നടത്തുമ്പോൾ നമ്മൾ ഡിപ്ലിഷൻ ടൈപ്പ് എൻ മോസ് ട്രാൻസിസ്റ്റർ കാണാൻ പോകുന്നു ഡ്രെയിൻ സ്വഭാവസവിശേഷതകളിലേക്കുള്ള നിർമ്മാണം വീണ്ടും കാണും അതിനാൽ ഇത് അടുത്ത പ്രഭാഷണമാകില്ല ഇത് അതേ പ്രഭാഷണത്തിന്റെ ഭാഗമായിരിക്കും പക്ഷേ അടുത്ത മൊഡ്യൂൾ അതിനാൽ അതുവരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അടുത്ത മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണും ശ്രദ്ധിക്കുക